ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ I D V D S ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ MOS ട്രാൻസിസ്റ്ററിന്റെ പോർട്ട് ടു സവിശേഷതകൾ സാച്ചുറേഷൻ മേഖലിൽ കൃത്യമായി ഫ്ലാറ്റ് അല്ലെന്ന് നമുക്കറിയാം അതിനാൽ അവയ്ക്ക് അല്പം മുകളിലേക്കുള്ള സ്ലോപ്പ് ഉണ്ട് V D S വർദ്ധിക്കുന്നതിനനുസരിച്ച് കറന്റ് അല്പം വർദ്ധിക്കുന്നു കറന്റിനായുള്ള എക്സ്പ്രഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ അധിക ഘടകമായ വൺ പ്ലസ് ലാംഡ V D S ഉണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് സ്മോൾ സിഗ്നൽ മോഡലിൽ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തുക എന്നതാണ് നമുക്കറിയാവുന്ന ഈ സ്മോൾ സിഗ്നൽ മോഡലിൽ g m മാത്രമേ ഉള്ളൂ ഇതാണ് ഗേറ്റ് ഇതാണ് ഡ്രെയിൻ ഇതാണ് സോഴ്സ് ഇതാണ് V G S ഇതാണ് g m V G S ഇതാണ് ഇൻക്രിമെൻറൽ V D S ഇത് സ്മോൾ സിഗ്നൽ ഇൻക്രിമെൻറൽ മോഡലാണ് MOS ട്രാൻസിസ്റ്ററിന്റെ ചിഹ്നം തന്നെ അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ ഈ g m എന്നുപറയുന്നത് V G S മായി ബന്ധപ്പെട്ട I D യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അതിനാൽ ഞാൻ അത് കണക്കാക്കിയാൽ mu n C ox W ബൈ L V G S മൈനസ് V T ഗുണനം വൺ പ്ലസ് ലാംമ്ട V D S എന്നുകിട്ടും ഈ വൺ പ്ലസ് ലാംഡ V D S എന്ന പദം ഇതിലും പ്രത്യക്ഷപ്പെടുന്നു അതിലും പ്രധാനമായി ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ പോർട്ട് ടു ടെർമിനലുകൾക്ക് കുറുകേ ദൃശ്യമാകുന്ന കണ്ടക്ടൻസ് y 2 2 ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്ടൻസ് എന്ന gds ആണെന്ന് നമുക്കറിയാം V D S ഉമായി ബന്ധപ്പെട്ട I D യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇത് പൂജ്യമാണെന്ന് നമ്മൾ കരുതി ഇത് അടിസ്ഥാനപരമായി ഈ കർവിന്റെ സ്ലോപാണ് ഇവിടെ റെഡ് കർവിന്റെ സ്ലോപ് പൂജ്യമാണ് പക്ഷേ ഇപ്പോൾ ഇത് ശരിക്കും പർപ്പിൾ കർവ് ആണെന്ന് നമുക്കറിയാം അതിനാൽ സ്ലോപ്പ് പൂജ്യമല്ല അതിനാൽ ഇത് ശരിക്കും അങ്ങനെയല്ല ഈ പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ അത് കണക്കാക്കിയാൽ ഇത് ലാംമ്ട ഗുണനം mu n C ox ബൈ 2 W ബൈ L V G S മൈനസ് V T സ്കൊയർ ആണെന്ന് എളുപ്പത്തിൽ മനസിലാകും വാസ്തവത്തിൽ ഏറ്റവും വലിയ ഗുണപരമായ മാറ്റം ഈ g d s ൽ പ്രത്യക്ഷപ്പെടുന്നു gds യഥാർത്ഥത്തിൽ പൂജ്യമായിരുന്നു ഇവിടെ ഒരു കണ്ടക്റ്റൻസും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ എക്സ്പ്രെഷൻ നൽകിയ ഒരു g d s എന്ന കണ്ടക്റ്റൻസ് ഉണ്ട് g m ന്റെ മൂല്യം ചില സംഖ്യകളുപയോഗിച്ച് പരിഷ്ക്കരിക്കുന്നു നേരത്തെ നമ്മൾ ഇത് കണക്കാക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ അധിക മോഡിഫയർ ഉണ്ട് ഇപ്പോൾ ഇത് ഒരു വലിയ മാറ്റമല്ല ഞാൻ പറഞ്ഞതുപോലെ ഈ ലാംഡ VDS ഒന്നിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ g m ന്റെ മൂല്യം അൽപ്പം മാറുന്നു പക്ഷേ നമ്മൾ സാധാരണയായി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല അതേസമയം ഇത് പൂജ്യമായിരുന്നു ഇപ്പോൾ പൂജ്യമല്ലാത്ത കണ്ടക്ടൻസ് ഉണ്ട് അതിനാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫലം അതിനാൽ നമുക്ക് പൂജ്യമല്ലാത്ത ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്ടൻസുണ്ട് തീർച്ചയായും ഇതും ഈ ഇൻക്രിമെന്റൽ ചിത്രത്തിന് ബാധകമാണ് നമുക്കിവിടെ പൂജ്യമല്ലാത്ത ഡ്രെയിൻ ടു സോഴ്സ് ഇൻക്രിമെന്റൽ കണ്ടക്ടൻസ് ഉണ്ട് അതിനാൽ പ്രായോഗികമായി നമ്മൾ എന്താണ് ചെയ്യുന്നത് സാച്ചുറേഷനിലെ കറൻറ് mu n C ox W by L V G S ബൈ V T സ്കൊയർ ഗുണനം വൺ പ്ലസ് ലാംമ്ട V D S ആണ് g m ന്റെ എക്സ്പ്രഷൻ mu n C ox W ബൈ L V G S മൈനസ് V T ഗുണനം വൺ പ്ലസ് ലാംമ്ട V D S ആണ് g d sനുള്ള എക്സ്പ്രഷൻ ലാംമ്ട ഗുണനം mu n C ox ബൈ 2 W ബൈ L V G S ബൈ V T സ്കൊയർ ആണ് അതിനാൽ എല്ലാം മാറുന്നു ഇവ ഇപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്ക് ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ അഡീഷണൽ വേരിയബിളും ഉണ്ട് അതിനാൽ സാധാരണയായി ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കുകൂട്ടലുകൾക്ക് ഇത് അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനാൽ നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഡ്രെയിൻ കറന്റ് കണ്ടെത്തേണ്ടിവരുമ്പോൾ നമ്മൾ അത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിനെ മാത്രം അടിസ്ഥാനമാക്കി ചെയ്യുന്നു ഇത് കൃത്യമല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഭാസങ്ങളെ മനസിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ അവസാന ദശാംശ സ്ഥാനം വരെ കണ്ടെത്താൻ കണക്കുകൂട്ടൽ നടത്തുന്നതല്ല കാരണം നിങ്ങൾ ഇത് ഉൾപ്പെടുത്തിയാലും ഇത് തന്നെ കൃത്യമല്ല മോസ്ഫെറ്റിന്റെ യഥാർത്ഥ മോഡൽ ശരിക്കും വളരെ സങ്കീർണ്ണമാണ് അതിനാൽ പ്രവർത്തനത്തെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കാൻ ഇത് മതിയാകും അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കുകൂട്ടലിനായി മിക്കപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കുന്നു നമുക്ക് അത് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിന്റെ ഫലം കണ്ടെത്താൻ നമ്മൾ യഥാർത്ഥത്തിൽ ഇൻക്രിമെന്റൽ കാൽകുലേഷൻസ് ഉപയോഗിക്കുന്നു ഈ എക്സ്പ്രഷന്റെ ഈ ഭാഗം ഉപയോഗിച്ചു ഏകദേശ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ കണക്കാക്കുന്നു ഇതിന്റെ ഏതെങ്കിലും എഫെക്ട് നമ്മൾ പിന്നീട് ചേർക്കുന്നു അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതുപോലെ g m നും ഇത് അവഗണിക്കുന്നു കാരണം നമ്മൾ വീണ്ടും ഈ ലാംഡ V D S ഒന്നിനേക്കാൾ വളരെ ചെറുതാണെന്ന അനുമാനത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യും അതിനാൽ നമ്മൾ ഇത് അവഗണിക്കും ഇതിനെ മാത്രം അടിസ്ഥാനമാക്കി gm കണക്കാക്കും തീർച്ചയായും g d s നു വേണ്ടി നമുക്ക് ഈ ലാംഡയെ അവഗണിക്കാൻ കഴിയില്ല നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂജ്യം ലഭിക്കും കൂടാതെ ക്വാണ്ടിറ്റേറ്റിവിലി പ്രാധാന്യമുള്ള ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് അതിനാൽ g d sനായി നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ഇപ്പോൾ എക്സ്പ്രഷന്റെ ഈ ഭാഗം I D ആണെന്ന് നമുക്ക് കാണാം അതിനാൽ gds ഏകദേശം ƛ I D ആണെന്ന് നമ്മൾ പറയുന്നു അതിനാൽ ഈ gds തന്നെ അത് ഡ്രെയിൻ കറന്റിന് ആനുപാതികമാണ് ഈ പദപ്രയോഗമാണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ƛ I D എന്ന എക്സ്പ്രെഷൻ ഉപയോഗിച്ച് നമ്മൾ g d s കണക്കാക്കുന്നു അതിനാൽ ഈ ഭാഗം വ്യക്തമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇതാണ് എക്സ്പ്രഷൻ എന്നാൽ കണക്കുകൂട്ടലുകൾ ലളിതമാക്കുന്നതിന് ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് കണക്കാക്കുമ്പോഴോ ട്രാൻസിസ്റ്ററിന്റെ g m കണക്കാക്കുമ്പോഴോ ഈ വൺ പ്ലസ് ലാംഡ V D S പദം നമ്മൾ അവഗണിക്കുന്നു എന്നാൽ g d s കണക്കാക്കുമ്പോൾ നമ്മൾ ലാംഡയെ കണക്കിലെടുക്കുന്നു കാരണം അതാണ് നിങ്ങൾക്ക് ലാംഡയുടെ പൂജ്യമല്ലാത്ത മൂല്യം നൽകുന്നത് അക്കങ്ങൾ നൽകുകയാണെങ്കിൽ ലാംഡ പോയിൻറ് പൂജ്യം അഞ്ച് ഇൻവേഴ്സ് വോൾട്ടുകളാണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇപ്പോൾ ഞാൻ ആദ്യം ലാംഡ പൂജ്യത്തിന് തുല്യമാണെന്ന് കരുതുകയും എല്ലാം കണക്കാക്കുകയും ചെയ്യാം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ത്രെഷോൾഡ് വോൾട്ടേജ് 1 വോൾട്ടും കറൻറ് ഫാക്ടർ 100 മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയറുമുള്ള ട്രാൻസിസ്റ്റർ തന്നെ ഉപയോഗിക്കാം ഞാൻ V G S 3 വോൾട്ട് എന്ന ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉപയോഗിക്കും ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ ലാംഡ 0 ന് തുല്യമാണെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ എനിക്ക് 200 മൈക്രോ ആമ്പിയറുകളുടെ ഒരു ഡ്രെയിൻ കറന്റ് ലഭിക്കുന്നു നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും എനിക്ക് 200 മൈക്രോ സീമെൻസ് g m ഉം ലഭിക്കുന്നു ഡ്രെയിൻ സോഴ്സ് കണ്ടക്ടൻസ് പൂജ്യമായിരിക്കും V D S 3 വോൾട്ട് ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു അങ്ങനെയാകുമ്പോൾ അത് സാച്ചുറേഷൻ മേഖലയിൽ തന്നെ തുടരും അതിനാൽ ഇത് സാച്ചുറേഷൻ സൂചിപ്പിക്കുന്നു കാരണം V D S V G S V T യേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ 0 05 വോൾട്ട് ഇൻവേഴ്സായി എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ലഭിക്കും ഒറിജിനൽ എക്സ്പ്രഷൻ സമയത്ത് നിന്ന് ലഭിച്ചതിനെക്കാൾ 1 ƛ V D S തവണ കൂടുതലായിരിക്കും ഈ സാഹചര്യത്തിൽ ലാംഡ VDS 0 05 വോൾട്ട് ഇൻവേഴ്സ് 3 ആണ് അതിനാൽ ഇത് 0 15 ആണ് അതിനാൽ I Dയുടെ യഥാർത്ഥ മൂല്യം 230 മൈക്രോ ആമ്പിയറുകളായി മാറുന്നു അതിനാൽ ഇവിടെയൊരു തെറ്റുണ്ട് നമ്മൾ 200 മൈക്രോ ആമ്പിയറുകൾ ആണെന്ന് കരുതുന്നുവെങ്കിൽ അത് ശരിയാണ് കാരണം ഇത് എല്ലാ പദപ്രയോഗത്തിലും നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒന്നും കണക്കാക്കാൻ കഴിയില്ല അതുപോലെ ഒറിജിനൽ എക്സ്പ്രഷനിൽ നിന്ന് കണക്കാക്കിയ g m ആയിരിക്കും g m ഇത് 200 മൈക്രോ സീമെൻസ് 1 ƛ V D S ആണ് ഈ കണക്കുകൂട്ടലുകൾ വളരെ ലളിതമാണ് അതിനാലാണ് ഞാൻ അവയിലൂടെ ഘട്ടം ഘട്ടമായി കടന്നുപോകാത്തത് അതിനാൽ നിങ്ങൾക്ക് ഇവ സ്വയം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു വീണ്ടും ഈ സംഖ്യയെ 200 മൈക്രോ സീമെൻസ് കൊണ്ട് ഗുണിച്ചാൽ 0 15 ആണ് അതിനാൽ ഇത് 230 മൈക്രോ സീമെൻസായിരിക്കും നിങ്ങൾ പൂർണ്ണമായ എക്സ്പ്രഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ g m ൽ ഒരു വർദ്ധനവുണ്ട് പക്ഷേ സാധാരണയായി നമ്മൾ അത് അവഗണിക്കും അവസാനമായി g d s തന്നെ നമ്മൾ ആദ്യം കണക്കാക്കിയ ƛ I D ആയിരിക്കും അതായത് 200 മൈക്രോ ആമ്പിയർ അതിനാൽ ലാംഡ പോയിന്റ് പൂജ്യം അഞ്ച് ആണ് ഇപ്പോൾ 0 05 തവണ 200 മൈക്രോ ആമ്പിയർ എന്നു പറയുന്നത് 10 മൈക്രോ സീമെൻസാണ് അതിനാൽ നമ്മുടെ മോഡലിൽ g m V G S ഉണ്ടായിരിക്കും 1 ƛ V D S പദം അവഗണിച്ചാൽ നമ്മൾ 200 മൈക്രോ സീമെൻസിന്റെ g m ഉപയോഗിക്കുന്നത് തുടരും എന്നാൽ ഈ രണ്ടു കണ്ടക്ടൻസിനുമിടയിൽ ഒരു റെസിസ്റ്ററുണ്ട് കണ്ടക്ടൻസ് 10 മൈക്രോ സീമെൻസ് ആണ് അതിന്റെ റെസിസ്റ്റൻസ് 100 kilo ohms ആണ് ഇതാണ് ഗേറ്റ് ഇതാണ് സോഴ്സ് ഇതാണ് ഡ്രെയിൻ അതിനാൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ ഇൻക്രിമെന്റൽ കണ്ടക്ടൻസ് അവതരിപ്പിക്കുക എന്നതാണ് ഈ ലാംഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഇത് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സവിശേഷതകളെ നേരിട്ട് ബാധിക്കും ആ ഫലം എന്താണെന്ന് ഇനിപ്പറയുന്ന പാഠങ്ങളിൽ നമ്മളത് വിശകലനം ചെയ്യും